ഹാലോ ഹീപ്പിനെ സംബന്ധിച്ചുള്ള മൂന്നാമത്തെ വിവരണത്തിലേക്കു സ്വാഗതം ഇത് NPTEL ന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സെക്വർ സിസ്റ്റംസ് എൻജിനീയറിങ്ങ് കോഴ്സിന്റെ ഭാഗമാണ് അപ്പോൾ നമുക്കിന്ന് t2 c നോക്കാം ഇത് നിങ്ങള്ക്ക് ഈ കോഴ്സിന്റെ കൂടെ വരുന്ന വർച്വൽ മെഷീനിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യുകയും വർച്വൽ മെഷീൻ ഉപയോഗിച്ചു തന്നെ റൺ ചെയ്യുകയും ചെയ്യാം ഇപ്പോൾ ഈ കോഡ് നോക്കാം ഇതൊരു അറ്റാക്ക് അല്ല മാത്രമല്ല ഇത് യഥാർത്ഥത്തിൽ ഒരു വൾനറബിലിറ്റി കാണിക്കുന്നുമില്ല ഇതുപയോഗിക്കുന്നത് ഒരു ഹീപ്പ് അലോക്കേറ്ററിന്റെ ഇന്റെർണൽ പ്രവർത്തനം വിവരിക്കാൻ വേണ്ടിയാണ് ഒരു ഹീപ്പ് അലോക്കേറ്ററിനു കുറെ ഭാഗങ്ങൾ ഉണ്ട് ആദ്യം നമുക്കതു ഓരോന്നായി നോക്കാം അതിനായി ഈ പ്രോഗ്രാം നമുക്ക് പലതായി ഭാഗിക്കാം എന്നിട്ടു ഓരോന്നായി നമുക്ക് റൺ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ എന്താണ് ചെയ്യുന്നത് എന്ന് വച്ചാൽ ആദ്യം 9 കാരക്ടർ പോയിന്റേഴ്സ് a1 മുതൽ a9 വരെ നിർവചിക്കുന്നു എന്നിട്ട് ഓരോന്നിനും 120 ബൈറ്റ്സ് അലൊക്കേറ്റ് ചെയ്തിട്ട് എല്ലാ പോയിന്ററിന്റേയും അഡ്രസ്സ് പ്രിൻറ് ചെയ്യുന്നു ഇതിൽ അസാധാരണമായി ഒന്നുമില്ല അതുകൊണ്ടു തന്നെ മുൻപത്തെ പോലെ ക്ലീൻ ആക്കി ആദ്യം മുതൽ t2 റൺ ചെയ്യാം അപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്നു വച്ചാൽ ഈ 9 പോയിന്റേഴ്സിനും വ്യത്യസ്തമായ അഡ്രസ് ആണ് അലോക്കേറ്റ് ആയത് ഒന്ന് നോക്കൂ നമ്മുടെ ഓരോ അലോക്കേഷൻ റിക്വസ്റ്റും 120 ബൈറ്റ്സിന് വേണ്ടിയായിരുന്നു പക്ഷെ നിങ്ങൾ അടുത്തടുത്ത പോയിന്റേഴ്സിന്റെ വ്യത്യാസം എടുത്തു നോക്കൂ ഉദാഹരണത്തിന് a2 ഉം a1 ഉം a5 ഉം a4 ഉം അല്ലെങ്കിൽ a4 ഉം a3 ഉം നമുക്ക് കാണാം ഈ അഡ്രസുകളുടെ വ്യത്യാസം 128 ബൈറ്റ്സ് ആണെന്ന് ആ 8 ബൈറ്റ്സ് അധികം വന്നത് എവിടെനിന്നാണ് അത് ഓരോ ചങ്കിലും അടങ്ങിയിരിക്കുന്ന മെറ്റാഡേറ്റയുടെ സാനിധ്യം മൂലമാണ് അപ്പോൾ a1 എന്ന മെമ്മറി ചങ്ക് എടുക്കാം അതിൽ മെറ്റാഡാറ്റ ഉണ്ട് ഉദാഹരണത്തിന് a2 തുടങ്ങുന്നത് 0804B490 എന്ന അഡ്രസ്സിൽ നിന്നാണ് ചങ്കിന്റെ മെറ്റാഡേറ്റ എന്നറിയപ്പെടുന്ന സൈസ്ഉം മറ്റു വിവരങ്ങളും ഈ അഡ്രസ്സിനു 8 ബൈറ്റ്സ് മുൻപുള്ള അഡ്രസ് മുതൽ സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെതന്നെ ഓരോ പോയിന്റേഴ്സിലും അടുത്ത് നമ്മൾ കാണുന്നത് വളരെ പ്രാധാന്യമുള്ള ട്രാവേഴ്സ് ഹീപ്പ് എന്ന ഫങ്ക്ഷൻ ആണ് അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നു വച്ചാൽ നമ്മൾ ഹീപ്പ് ട്രാവേഴ്സ് ചെയ്തിട്ട് എന്തൊക്കെ മെറ്റാഡാറ്റ വിവരങ്ങൾ ആണ് അതിൽ സന്നിഹിതമായിരിക്കുന്നത് എന്ന് നോക്കാം അതിനു മുൻപ് ഈ ഫങ്ക്ഷൻ ട്രാവേഴ്സ് ഹീപ്പിനു ശേഷം നമുക്ക് എക്സിറ്റ് ചെയ്യാം അങ്ങിനെ ഭാഗികമായ മറ്റൊരു ഔട്ട്പുട്ട് ഉറപ്പാക്കാം ഈ ട്രവേഴ്സ് ഹീപ്പ് ഫങ്ഷൻ ആദ്യം ഒരു മെമ്മറി ലൊക്കേഷൻ എടുക്കുന്നു ഉദാഹരണത്തിന് a1 ഇവിടെ അത് ആദ്യത്തെ എംഅലോക് മെമ്മറി ചങ്ക് ആണ് പിന്നെ a1 ചങ്കിൻറെ മെറ്റാഡാറ്റയിലേക്കു ഒരു പോയിന്റർ അസൈൻ ചെയ്യുന്നു അതായതു എവിടെയാണോ യഥാർത്ഥത്തിൽ പോയിന്റർ ലഭിച്ചത് അതിൽ നിന്ന് 8 ബൈറ്റ്സ് മാറിയുള്ള ലൊക്കേഷൻ മെറ്റാഡാറ്റക്ക് പ്രധാനമായും രണ്ടു ഫീൽഡുകൾ ഉണ്ട് ഒരെണ്ണം സൈസ് ആണ് 31 ബിറ്റ് അതായതു മോസ്റ്റ് സിഗ്നിഫിക്കൻൻറ് ബിറ്റ് ആയ 31 മത്തെ ബിറ്റിൽ തുടങ്ങി 1 മത്തെ ബിറ്റ് വരെ രണ്ടാമത്തെ ഇൻ യൂസ് ബിറ്റ് ആണ് അത് ലീസ്റ് സിഗ്നിഫിക്കൻൻറ് ബിറ്റ് ആയ 0 പൊസിഷനിൽ ഉള്ള ബിറ്റ് ആണ് ഇൻ യൂസ് ബിറ്റ് 0 ആണെങ്കിൽ സൈസ് അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മുൻപത്തെ ചങ്ക് ഫ്രീ ആണ് 1 ആണെങ്കിൽ ഇൻ യൂസ് ആണ് അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടത് 120 ബൈറ്റ്സ് ആണെങ്കിലും എല്ലാ എംഅലോക് റിക്വസ്റ്റിലും അധികമായി ഒരു 8 ബൈറ്റ്സ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചങ്ക് സൈസ് 128 ബൈറ്റ്സ് ആണ് അപ്പോൾ ഈ പ്രിൻറ്എഫ് വ്യത്യസ്ഥങ്ങളായ പല കാര്യങ്ങളും പ്രിൻറ് ചെയ്യുന്നു ഒരു പോയിന്റർ പ്രിൻറ് ചെയ്യുന്നു സൈസ് പ്രിൻറ് ചെയ്യുന്നു അത് ഇൻ യൂസ് ആണോ അല്ലയോ എന്നും നിർണയിക്കുന്നു അതുകൊണ്ടു നമുക്ക് ഈ പ്രോഗ്രാം വീണ്ടും കംപൈൽ ചെയ്തു റൺ ചെയ്യാം എന്നിട്ട് മെറ്റാഡാറ്റയുടെ ഇൻടെർണൽ വിവരങ്ങൾ കാണാം ഇപ്പോൾ നമ്മൾ നിർവചിച്ച ഓരോ പോയിന്റേഴ്സിനും നമുക്ക് ചങ്കിന്റെ ലൊക്കേഷൻ കിട്ടും ഉദാഹരണത്തിന് a1 ൻറെ ലൊക്കേഷൻ 0804B410 ഉം a1 ൻറെ മെറ്റാഡാറ്റയുടെ ലൊക്കേഷൻ 0804B408 ഉം ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പ്രദിപാതിച്ച മെറ്റാഡാറ്റയുടെ സൈസ് 128 ബൈറ്റ്സ് ആണ് 120 ബൈറ്റ്സ് നമ്മൾ ആവശ്യപ്പെട്ട അലോക്കേഷനും 8 ബൈറ്റ്സ് മെറ്റാഡാറ്റക്കും വേണ്ടി ആണ് നമ്മൾ ഒരു കാര്യം കൂടി കാണുന്നുണ്ട് മുൻപ് ഇൻ യൂസ് ഫ്ലാഗ് 1 ആയി സെറ്റ് ചെയ്തിരുന്നു അത് സൂചിപ്പിക്കുന്നത് എന്താണെന്നു വച്ചാൽ അതിനു മുൻപത്തെ മെമ്മറി ചങ്ക് നോട്ട് ഇൻ യൂസ് ആണ് അടുത്തതായി നമുക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ടു പോകാം നമുക്ക് ഈ ട്രാവേഴ്സ് ഹീപ്പ് ഡിസേബിൾ ചെയ്യാം ഇവിടെ നിന്ന് എക്സിറ്റ് റിമൂവ് ചെയ്യാം ഇപ്പോൾ നോക്കൂ വാസ്തവത്തിൽ നമ്മൾ ഈ കുറച്ചു പോയിന്റർസ് കൂടി ഫ്രീ ആക്കിയിട്ടുണ്ട് അതായത് നമ്മൾ a2 a4 a6 a8 എന്നീ പോയിന്റേഴ്സിനെ ഫ്രീ ആക്കി ഇനി നമുക്ക് ഈ പുതിയ ട്രാവേഴ്സിന് ശേഷം എക്സിറ്റ് വച്ച് ഹീപ്പ് വീണ്ടും ട്രവേഴ്സ് ചെയ്യാം ഇപ്പോൾ എന്താണ് കാണാൻ പോകുന്നതെന്ന് വച്ചാൽ നമ്മൾ ചെയ്ത ഫ്രീ ഇൻവോക്കേഷൻ ട്രവേഴ്സ്സ് മൂലം ഹീപ്പിൽ നിലവിലുള്ള മെറ്റാഡാറ്റ മാറ്റപ്പെട്ടു അപ്പോൾ നമ്മൾ വീണ്ടും കംപൈൽ ചെയ്തു മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്താമായി അതായതു അവിടെ എല്ലാ ഇൻ യൂസ് ബിറ്റ്സും 1 ആയി സെറ്റ് ചെയ്തിരുന്നു പക്ഷെ ഇവിടെ നമ്മൾ 4 പോയിന്റർ ഫ്രീ ആക്കിയതിനാൽ മുൻപ് ഇൻ യൂസ് ബിറ്റ്സും 1 ആയി സെറ്റ് ചെയ്തിരുന്ന 4 മെമ്മറി ചങ്ക് ഉണ്ടായിരുന്നു നമുക്ക് കുറച്ചുകൂടി സൂക്ഷ്മമായി നിരീക്ഷിക്കാം ആദ്യം ശ്രദ്ധയിൽ പെടുത്തേണ്ടത് a1 മുതൽ a9 വരെയുള്ള എല്ലാ പോയിന്റേഴ്സും കണ്ടിഗുവെസ് ആണ് a1 നാണു ഏറ്റവും താഴ്ന്ന അഡ്രസ്സ് പിന്തുടർന്ന് a2 a3 അങ്ങനെ a9 വരെ നമ്മൾ a2 ഫ്രീ ചെയ്യുമ്പോൾ ഫ്രീ അലോക്കേഷൻ a2 പോയിന്ററിന്റേതായ ചങ്കിനെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നു എന്നിട്ട് അടുത്ത ചങ്കിന്റെ ഇൻ യൂസ് ബിറ്റ് 0 ആക്കുന്നു അപ്പോൾ ഈയൊരു സന്ദർഭത്തിൽ ഇവിടെ നമ്മൾ ഈ ഫീൽഡുകൾ നോക്കിയാൽ a2 നു അനുസ്യതമായി അടുത്ത മെമ്മറി ചങ്ക് ആയ a3 യുടെ ഇൻ യൂസ് ബിറ്റ് 0 ആയി സെറ്റ് ചെയ്തിട്ടുണ്ടാകും ഈ പരിശോധന ആണ് ഈ കുറച്ച് ലൈൻസ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതെന്താണെന്നു വച്ചാൽ ആദ്യം തൊട്ടടുത്തുള്ള ചങ്കിന്റെ അടുത്ത് വരുന്ന ചങ്കിന്റെ ഇൻ യൂസ് ബിറ്റ് 0 ആണോന്ന് പരിശോധിക്കുന്നു അങ്ങനെ ആണെങ്കിൽ നമ്മൾ പിട്ടിഎംഅലോക് സൂക്ഷിക്കുന്ന ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ പ്രിൻറ് ചെയ്യുന്നു ഇവിടെ ഈ പ്രതേക സന്ദർഭത്തിൽ ലിങ്ക്ഡ് ലിസ്റ്റിൽ സന്നിഹിതമായിരിക്കുന്നത് യഥാക്രമം ചങ്ക് പ്ലസ് 2 ചങ്ക് പ്ലസ് 3 എന്നീ ലൊക്കേഷൻസ് ആണ് അതുകൊണ്ട് ഈ മെമ്മറിയിൽ പ്രീവിയസ് പോയിന്ററും അടുത്ത നോഡിലേക്കുള്ള നെക്സ്റ്റ് പോയിന്ററും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഡിഅലൊക്കേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഫ്രീ ആക്കിയ a2 a4 a6 a8 എന്നീ 4 മെമ്മറി ചങ്കുകൾക്ക് അനുസൃതമായി 4 നോഡ്സ് ലിങ്ക്ഡ് ലിസ്റ്റിൽ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഈ ലിങ്ക്ഡ് ലിസ്റ്റിനെ പിന്തുടരുകയാണെങ്കിൽ ഈ F7fb87b0 എന്ന പോയിന്ററിൽ തുടങ്ങാം ഇത് ഹീപ്പ് മാനേജ്മെന്റിലെ ഒരു പ്രത്യേക ലൊക്കേഷൻ പ്രതിനിധീകരിക്കുന്നു ഇത് പിട്ടിഎംഅലോകിന് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഹെഡിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നു ഈ നെക്സ്റ്റ് പോയിന്റർ 0804B588 അടുത്ത ഫ്രീ ചങ്കിനെ പോയിന്റ് ചെയ്യുന്നു അതായതു ഇതിനെ ഇനി നമ്മൾ അടുത്ത ഫ്രീ ചങ്കിലെ നോക്കുമ്പോൾ പ്രീവിയസ് പോയിന്റർ അതായത് ഇത് പോയിന്റ് ചെയ്യുന്നത് ആദ്യത്തെ ചങ്കിനെയും നെക്സ്റ്റ് പോയിന്റർ അടുത്ത ഫ്രീ ചങ്കിനെയും ആണ് അതായത് ഇതൊരു ഡബ്ളി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ഈ ചങ്ക് ആദ്യത്തെ ചങ്ക് രണ്ടാമത്തെ ചങ്കിലേക്ക് പോയിന്റ് ചെയ്യുന്നു രണ്ടാമത്തെ ചങ്ക് മൂന്നാമത്തെ ചങ്കിലേക്ക് പോയിന്റ് ചെയ്യുന്നു മൂന്നാമത്തെചങ്ക് നാലാമത്തെ ചങ്കിലേക്ക് പോയിന്റ് ചെയ്യുന്നു അതുപോലെ തന്നെ തിരിച്ചും ഒരു കാര്യം കൂടി ഇതൊരു സർക്കുലാർ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് എന്തുകൊണ്ടെന്നാൽ അവസാനം ഫ്രീ ആക്കിയ ചങ്ക് പോയിന്റ് ചെയ്യുന്നത് ആദ്യത്തെ ചങ്കിന്റെ ലൊക്കേഷൻ ആയ F7fb87b0 ലേക്ക് ആണ് അപ്പോൾ നമുക്ക് വീണ്ടും എന്താണ് ചെയ്യേണ്ടത് എന്ന് വച്ചാൽ നമുക്ക് വീണ്ടും എംഅലോക് വിളിച്ച് ഒരു മെമ്മറി അലോക്കേഷൻ ആവശ്യപ്പെടാം അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വച്ചാൽ നമുക്കൊരു ലിങ്ക്ഡ് ലിസ്റ് ഉള്ളതിനാലും അത് എംപ്റ്റി അല്ലാത്തതിനാലും പിട്ടിഎംഅലോക് ഫ്രീ ലിസ്റ്റിൽ നിന്ന് ഒരു മെമ്മറി ചങ്ക് നീക്കം ചെയ്തു എംഅലോക് റിക്വസ്റ്റിനു അലോക്കേറ് ചെയ്യും ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വച്ചാൽ നമുക്ക് ഈ എക്സിറ്റ് ഇവിടെ നിന്ന് നീക്കം ചെയ്ത് പ്രോഗ്രാം അവസാനം വരെ റൺ ചെയ്യാനനുവദിക്കാം എന്നിട്ടു നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് എംഅലോക് സ്റ്റോർ ചെയ്തിരിക്കുന്ന മെറ്റാഡാറ്റക്ക് സംഭവിക്കുന്നതെന്ന് അപ്പോൾ ഇത് ഫ്രീ മെമ്മറി ചങ്കുകളുടെ 4 എലമെൻറ്സ് ഉള്ള ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ആദ്യത്തെ ട്രാവേഴ്സ് ഹീപ്പിന് അനുസരിച്ചുള്ളതാണ് ഈ അലോക്കേഷൻ വച്ച് മറ്റേ 120 ബെറ്റിസിനു വേണ്ടി പിട്ടിഎംഅലോക് ഫ്രീ ലിസ്റ്റിൽ ഉള്ള ഈ ചങ്കുകളിൽ ഒന്നാണ് ഉപയോഗിക്കുന്നത് ആയതിനാൽ നമ്മുടെ ഫ്രീ ലിസ്റ്റ് ഇപ്പോൾ ഒന്ന് കുറഞ്ഞപ്പോൾ 3 മെമ്മറി ചങ്ക്സ് ഉള്ള ഒന്നയിട്ടുണ്ട് നമ്മൾ തൊട്ടുമുൻപ് ഫ്രീ ആക്കിയ a2 ൻറെ മെമ്മറി ആണ് അലോക്കേറ്റ് ചെയ്തത് ഇപ്പോൾ a2 പോയിൻറ് ചെയ്തിരുന്നത് 0804B490 യിലേക്കായിരുന്നു ഇപ്പോൾ അത് ഫ്രീ ആക്കി നമ്മുടെ പുതിയ മെമ്മറി ആവശ്യകത കൃത്യമായി അതേ മെമ്മറി ചങ്കിനു വേണ്ടി ആയിരുന്നതുകൊണ്ട് ഈ പുതിയ റിക്വസ്റ്റ് അതായതു a2 അതേ മെമ്മറി ചങ്കിലേക്കു തന്നെ പോയിന്റ് ചെയ്യുന്നു